ഈ അദ്ധ്യായത്തിലെ അവസാനത്തെ മൊഡ്യൂൾ ആണ് ഇത് നമ്മളിവിടെ ഓപ്ആമ്പും പിന്നെ ഓപ്ആമ്പിൻറെ സർക്യൂട്ടുകളും കണ്ടു ഓപ്ആമ്പ് ഇവിടെ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ നോൺഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഓപ്ആമ്പ് ഒരു സമ്മിങ് ആംപ്ലിഫയർ ആയും കണ്ടു ഈ അദ്ധ്യായത്തിൽ ഓപ്ആംപ് എങ്ങനെ ഡിഫറെൻഷ്യറ്റർ ആയി ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം ഓപ്ആംപ് എങ്ങനെ ഒരു യൂണിറ്റി ഗെയ്ൻ ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാം എന്നു കണ്ടു നമ്മൾ കുറേ ചോദ്യങ്ങളും അതിൻറെ ഉത്തരങ്ങളും കണ്ടുപിടിച്ചു കുറെയൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ് ഞാൻ എക്സ്പിരിമെൻറ് ക്ലാസ്സിലും കാണിച്ചു തരാം നിങ്ങൾ സ്ലൈഡിലേക്ക് തിരിച്ചുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഫറെൻഷ്യറ്റർ കാണാം നിങ്ങൾ കഴിഞ്ഞ മോഡ്യൂൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്റഗ്രേറ്റർ കോൺഫിഗറേഷനു വിപരീതമാണ് ഇന്റഗ്രേറ്റർ ഓർത്തുനോക്കൂ ഇവിടെ ആയിരുന്നു കപ്പാസിറ്റർ ഇവിടെ നോക്കൂ ആർ സി എന്നിവയുടെ പൊസിഷൻ മാറുമ്പോൾ എനിക്ക് ഇന്റഗ്രേറ്ററിനെ ഡിഫറെൻഷ്യറ്റർ ആക്കി മാറ്റാൻ കഴിയും എന്താണ് ഡിഫറെൻഷ്യറ്റർ

ഡിഫറെൻഷ്യറ്റർ സർക്യൂട്ടിലെ ഔട്ട്പുട്ട് എന്നുപറയുന്നത് അനുപാതികം ആയിരിക്കുന്നത് ഇന്പുട്ട് വോൾടേജിന്റെ സമയാനുസൃതമായ നെഗറ്റീവ് ഡിഫറെൻഷ്യലിനോട് ആണ് എനിക്ക് വിനോട്ടിന്റെ ഇക്വാഷൻ കാണണം എങ്കിൽ ഒരേ കറണ്ട് ആണ് ആർ ഇൽകൂടെയും സി യിൽകൂടെയും പോകുന്നത് ഇന്റഗ്രേറ്റർ പോലെ ഇതിലൂടെ പോകുന്ന കറൻറ് ഒരേ കറൻറ് ആണ് പോകുന്നത് കറന്റിന്റെ ഇക്വേഷൻ എനിക്ക് താഴെ എഴുതാം വിനോട് ഇന്റെ വാല്യൂ എനിക്ക് ഇവിടെ കാണാം ഒരു സർക്യൂട്ട് തന്നാൽ അതായത് ഒരു ഡിഫറെൻഷ്യറ്റർ സർക്യൂട്ട് തന്നാൽ എങ്ങനെയാണു ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് ഇൻപുട് വോൾടേജ് മൂന്ന് പോയിന്റ് അഞ്ചു വോൾട് പിന്നെ ടൈം കോൺസ്റ്റന്റ് ഒന്ന് പോയിന്റ് അഞ്ചു മില്ലി സെക്കന്റ് ആണെന്ന് വിചാരിക്കുക ഇൻപുട് വോൾടേജ് പിന്നെ ടൈം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം ഇതു വളരെ എളുപ്പം ആണ് കാരണം എനിക്ക് ഫോർമുല അറിയാം എനിക്ക് വിനോട്ടിന്റെ ഫോർമുല അറിയാം ഞാനിവിടെ ആർ ഇന്റെയും സി ഇന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ വി ഇൻ നേരത്തെ അറിയാം അപ്പോൾ വി നോട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ കിട്ടും Vo 1 ഒരു ഡിഫറെൻഷ്യറ്റർ സർക്യൂട്ട് തന്നാൽ ഡിഫറെൻഷ്യറ്ററിൽ ഒരു സൈൻ വേവ് ഒരു വോൾട് പീക്ക് ടു പീക്ക് ആയിരം ഹെർട്സ് കൊടുക്കുക ആണെങ്കിൽ ആർ സി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾടേജിന്റെ വേവ്ഫോമും കണ്ടുപിടിക്കാം ഈ വാല്യൂ തന്നിട്ടുണ്ട് വി ഇൻ ഒരു സൈൻ വേവ് ഒരു വോൾട് ആണ് ഔട്ട്പുട്ട് വോൾടേജ് ഡിഫറെൻഷ്യറ്റർ ഈ വാല്യു ആണ് എനിക്കു കാണാം അപ്പൊ ഔട്ട്പുട്ട് വേവ്ഫോമും ഇതുപോലെ ആണ് ഈ ഫോർമുല ഔട്ട്പുട്ട് വോൾടേജ് കാണാൻ ഉപയോഗിച്ചാൽ ഔട്ട്പുട്ട് വേവ്ഫോമും ഇതാണ് ഇൻപുട് വോൾടേജ് ഇൻപുട് വേവ്ഫോം വ്യത്യാസം ആയി കൊടുത്താൽ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉള്ള വേവ്ഫോംസ് കിട്ടും ഇവിടെ നമ്മൾ ഓപ്ആംപ് എങ്ങനെ ഡിഫറെൻഷ്യറ്റർ ആയി പ്രവർത്തിക്കുന്നു എന്നു കണ്ടു പിന്നെ ഓപ്പറേഷനൽ ആംപ്ലിഫൈർ ഡിഫറെൻഷ്യറ്റർ ആയി ഉപയോഗിച്ചതിന്റെ ഉദാഹരണം കണ്ടു അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് ഓപ്ആംപ് എങ്ങനെ ഫിൽട്ടർ ആയി പ്രവർത്തിക്കാം എന്നു കാണാം ഓപ്ആംപ് പല ആവശ്യങ്ങൾക്കു ഉപയോഗിക്കാം പിന്നെ അതിൽ ഒരു ഉപയോഗമാണ് ഫിൽട്ടർ ഫിൽട്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നു നമുക്ക് നോക്കാം ഇതുപോലത്തെ ഫിൽട്ടർ സർക്യൂട്ട് ഇതു പോലത്തെ ആംപ്ലിഫയർ സർക്യൂട്ട് ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് ഇന്റഗ്രേറ്റർ ഡിഫറെൻഷ്യറ്റർ സമ്മർ യൂണിറ്റി ഗെയ്ൻ ആംപ്ലിഫൈർ എന്നിവയിൽ ഏതു ആയാലും ബ്രഡ് ബോർഡിൽ ഉണ്ടാക്കാം നമുക്ക് സിമുലിംക് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങിനെ സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാം എന്നു കാണാം ഇതു നിങ്ങൾക്കു സർക്യൂട്ടിന്റെ പ്രവർത്തനത്തെപ്പറ്റിയും ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം എന്നും ഏതെല്ലാം സർക്യൂട്ടുകൾ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റിയും കുറച്ചു കൂടി ധാരണ ഉണ്ടാവാൻ സഹായിക്കും അതുവരെ എന്താണ് ഡിഫറെൻഷ്യറ്റർ എന്നു നിങ്ങൾ മനസ്സിലാക്കുക ഡിഫറെൻഷ്യറ്ററിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നും ഒരിക്കൽ കൂടി നോക്കണം അടുത്ത അദ്ധ്യായത്തിൽ ഓപ്ആംപ് എങ്ങനെ ആക്റ്റീവോ പാസ്സീവ് ഫിൽട്ടർ ആയോ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതുവരെ നിങ്ങൾ ഈ അധ്യായം ഒന്നു കൂടെ നോക്കുക ഒരു ഓപ്ആംപ് എങ്ങിനെ ആംപ്ലിഫൈർ ആയി പ്രവർത്തിക്കും എന്നും മനസ്സിലായല്ലോ